ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ നമ്മൾ ആദ്യം സ്ക്രം ആണ് ചർച്ചചെയ്യുന്നത് അത് അജയ്ല് ആയതും വളരെ സജീവവും ജനപ്രിയവുമായ ഒരു വികസന മാതൃകയാണ് പല വ്യവസായങ്ങളും പ്രോജക്ടുകളും ഇപ്പോൾ സ്ക്രം ഉപയോഗിക്കുന്നു തുടർന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ജീവിതചക്രം മോഡലുകളും അവലോകനം ചെയ്യും തന്നിരിക്കുന്ന പ്രോജക്റ്റിനായി ഒരു ജീവിതചക്രം എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം സാധ്യമെങ്കിൽ നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ പ്രോജക്റ്റ് ആസ്രൂത്രണങ്ങളെക്കുറിച്ചുള്ള ചില ആമുഖ ചർച്ച ചെയ്യും ഇനി നമുക്ക് സ്ക്രം നോക്കാം അവസാന പ്രഭാഷണത്തിൽ നമ്മൾ സ്ക്രം നോക്കിയത് അത് അജിലേ മാതൃകകളിലൊന്നാണ് ഇവിടെ ഒരു പ്രധാന കാര്യം സ്പ്രിന്റ് ആണ് സ്ക്രമിന്റെ അടിസ്ഥാന പ്രക്രിയ പ്രവാഹമാണ് സ്പ്രിന്റ് ഒരു സ്പ്രിന്റ് യഥാർത്ഥത്തിൽ ഒരു ആവർത്തനം അല്ലെങ്കിൽ സമയപെട്ടിയാണ് അതിൽ സ്പ്രിന്റ് സമയത്ത് ഒരു വർദ്ധനവ് വികസിപ്പിക്കുകയും ഉപഭോക്താവിന് കൈമാറുകയും ചെയ്യുന്നു സാധാരണയായി ഇത് ഒരു മാസം നീണ്ടുനിൽക്കുന്ന ആവർത്തനമാണ് അതിൽ നിലവിലുള്ള ചില സവിശേഷതകൾ മെച്ചപ്പെടാം അല്ലെങ്കിൽ ചില പുതിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാം പ്രോഡക്ട് ബാക്ക്ലോഗിൽ എല്ലാ സ്റ്റോറി പോയിന്റുകളും ഉണ്ട് വികസിപ്പിക്കേണ്ട സവിശേഷതകൾ ഒരു പ്രോഡക്ട് ബാക്ക്ലോഗിൽ പരിപാലിക്കപ്പെടുന്നു ഒപ്പം സ്പ്രിന്റ് ആസൂത്രണ സമയത്ത് ഒരു സ്പ്രിന്റിനുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നു ഇതിനെ സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് വിളിക്കുന്നു 1 സ്പ്രിന്റിനിടെ പ്രോഡക്ട് ബാക്ക്ലോഗിന്റെ ലക്ഷ്യങ്ങളുടെ അല്ലെങ്കിൽ സവിശേഷതകളുടെ ഉപസെറ്റ് വികസിപ്പിക്കും ഒരു സ്പ്രിന്റ് എല്ലാ ദിവസവും തുടരുമ്പോൾ ടീം കണ്ടുമുട്ടുകയും ഓരോ ദിവസവും അവരുടെ പദ്ധതി എന്താണെന്ന് ചർച്ച ചെയ്യുകയും അവർ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ഒരു മാസത്തെ ആവർത്തനത്തിനുശേഷം സ്പ്രിന്റ് പൂർത്തിയാകുകയും ചെയ്തുകഴിഞ്ഞാൽ സ്പ്രിന്റ് അവലോകനം ചെയ്യുകയും തുടർന്ന് നേടിയത് അത് ഉപഭോക്താവിന് കൈമാറി ഒരു സ്പ്രിന്റ് സമയത്ത് വികസിപ്പിച്ചെടുക്കേണ്ട പ്രോഡക്ട് ബാക്ക്ലോഗിന്റെ ഉപസെറ്റ് ടീം അംഗങ്ങൾ തിരിച്ചറിഞ്ഞാൽ സ്പ്രിന്റ് ബാക്ക്ലോഗിന് രൂപം നൽകുന്ന ഒരു കാര്യം സ്ക്രം രീതി അല്ലെങ്കിൽ സ്ക്രം മാതൃകക്ക് ആവശ്യമാണ് അതിനർത്ഥം അവ നടപ്പിലാക്കുന്നതിനായി ചില ഇനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഈ ഇനങ്ങളിൽ മാറ്റങ്ങളൊന്നും അനുവദിക്കില്ല അല്ലാത്തപക്ഷം ഇത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും സ്പ്രിന്റ് ഒത്തുചേരില്ല അനിശ്ചിതത്വം തുടങ്ങിയവ അതുകൊണ്ടാണ് സ്പ്രിന്റ് സമയത്ത് അനുവദനീയമായ സ്ക്രം ടീമിനെപ്പോലെ സ്പ്രിന്റ് ടീമുമായി ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കാത്തത് ഇവ സ്ക്രം ചട്ടക്കൂടിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് അതിലൊന്നാണ് വിവിധതരം റോളുകൾ ഒരു സ്ക്രം ടീമിൽ ടീം അംഗങ്ങളിൽ ഒരാളായ പ്രോഡക്ട് ഉടമയുണ്ട് മറ്റൊരു ടീം അംഗമായ സ്ക്രം മാസ്റ്റർ ഉണ്ട് പിന്നെ മറ്റ് ടീം അംഗങ്ങളുമുണ്ട് ഒരു സ്ക്രം ടീമിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഇവയാണ് പ്രോഡക്ട് ഉടമ സ്ക്രം മാസ്റ്റർ ഇവർ വിശിഷ്ട ടീം അംഗങ്ങളും മറ്റ് ടീം അംഗങ്ങളുമാണ് സ്ക്രം ചട്ടക്കൂടിൽ ചില ചടങ്ങുകൾ അല്ലെങ്കിൽ യോഗങ്ങൾ നടത്തേണ്ടതുണ്ട് സ്പ്രിന്റ് ആസൂത്രണ യോഗം സ്പ്രിന്റ് അവലോകന യോഗം സ്പ്രിന്റ് മുൻകാല മീറ്റിംഗ് ദൈനംദിന സ്ക്രം മീറ്റിംഗ് എന്നിവയാണ് നമ്മൾ ഈ മീറ്റിംഗുകൾ നോക്കുന്നു സ്പ്രിന്റ് ആസൂത്രണ യോഗത്തിൽ ഇത് ഒരു സ്പ്രിന്റ് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് നടത്തപ്പെടുന്നു ഇവിടെ പ്രോഡക്ട് ബാക്ക്ലോഗിന്റെ ഒരു ഉപസെറ്റ് തിരിച്ചറിയുകയും സ്പ്രിന്റ് ബാക്ക്ലോഗ് രൂപപ്പെടുകയും ചെയ്യുന്നു സ്പ്രിന്റ് അവലോകന മീറ്റിംഗ് സ്പ്രിന്റിന്റെ അവസാനത്തിലാണ് നടത്തുന്നത് സ്പ്രിന്റ് സമയത്ത് പൂർത്തിയാക്കിയ ജോലികൾ ഇവിടെ അവലോകനം ചെയ്യും സ്പ്രിന്റ് അവലോകന യോഗത്തിനു ശേഷവും അടുത്ത സ്പ്രിന്റ് ആരംഭിക്കുന്നതിന് മുമ്പോ അടുത്ത സ്പ്രിന്റ് ആസൂത്രണ യോഗത്തിലോ ഉള്ള സ്പ്രിന്റിന്റെ അവസാനത്തിലാണ് ഇത് നടത്തുന്നത് ഇവിടെ എന്തുചെയ്യാൻ കഴിയുമായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും പ്രതിഫലനങ്ങൾ ചർച്ചചെയ്യപ്പെടുന്നു കൂടാതെ ഇത് ദിവസേന നടക്കുന്ന സ്ക്രം യോഗം ഇവിടെ ഒരു ടീം അംഗങ്ങൾ പരസ്പരം ചർച്ചചെയ്യുന്നു ചെറിയ യോഗത്തിൽ അവരുടെ പദ്ധതി എന്താണെന്നത് അവർ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇത് പദ്ധതിയുടെ പുരോഗതി ട്രാക്കുചെയ്യുന്നതിന് സ്ക്രം മാസ്റ്റർക്കുള്ള ഒരു മാർഗമാണ് സ്ക്രം ചട്ടക്കൂടിൽ നിർബന്ധമാക്കിയ ചില ആർട്ടിഫക്ടസ് ഉണ്ട് അതിലൊന്നാണ് പ്രോഡക്ട് ബാക്ക്ലോഗ് ഇവിടെ ഇനങ്ങളും ഇനിയും പൂർത്തിയാകാത്ത സവിശേഷതകളും പ്രോഡക്ട് ബാക്ക്ലോഗിൽ പരിപാലിക്കപ്പെടുന്നു നടപ്പിലാക്കേണ്ട സവിശേഷതകളുടെ മുൻഗണനാ പട്ടികയാണിത് സ്പ്രിന്റ് സമയത്ത് പൂർത്തിയാക്കേണ്ട പ്രോഡക്ട് ബാക്ക്ലോഗിന്റെ ഒരു ഉപസെറ്റാണ് സ്പ്രിന്റ് ബാക്ക്ലോഗ് ബേൺ ഡൌൺ ചാർട്ടുകൾ അടിസ്ഥാനപരമായി ഒരു സ്പ്രിന്റിലെ പുരോഗതിയുടെ സംക്ഷിപ്ത പ്രാതിനിധ്യം പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് ചെയ്യേണ്ട ജോലിയുടെ അളവ് തുടങ്ങിയവയാണ് തുടർന്നുള്ള സ്ലൈഡുകളിലെ ബേൺ ഡൌൺ ചാർട്ടുകൾ നമ്മൾ നോക്കും പ്രോഡക്ട് ഉടമ വികസന ടീം സ്ക്രം മാസ്റ്റർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ഉപഭോക്താവിന്റെ താൽപ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഉപഭോക്താവിനുവേണ്ടി ചിന്തിക്കുന്ന ഒരു ടീം അംഗമാണ് പ്രോഡക്ട് ഉടമ വികസന ടീമിൽ സാധാരണയായി ക്രോസ് നിർവഹണപരമായ കഴിവുള്ള 5 മുതൽ 9 വരെ ആളുകൾ ഉണ്ടാവും അതായത് ഓരോ ടീം അംഗത്തിനും സാധാരണയായി ഒരു ടെസ്റ്റർ ഒരു ജിയുഐ ഡെവലപ്പർ കോഡിംഗ് ഡാറ്റാബേസ് തുടങ്ങിയവയ്ക്ക് ഒന്നിലധികം കഴിവുകളുണ്ട് പ്രൊജക്റ്റ് മാനേജർ എന്നും അറിയപ്പെടുന്ന സ്ക്രം മാസ്റ്റർ ഉന്നത മാനേജുമെന്റുമായി ഇടപഴകുന്ന ടീം അംഗമാണ് ഒപ്പം ഉണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും ഉപഭോക്താക്കളുമായും ഉയർന്ന മാനേജുമെന്റുമായും ചർച്ച ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നീക്കംചെയ്യുന്നു ഉന്നത മാനേജുമെന്റുകളുമായും ഉപഭോക്താക്കളുമായും മറ്റുള്ളവരുമായും സംസാരിക്കുന്നതിൽ നിന്ന് ടീം അംഗത്തെ അങ്ങനെയാണ് ആവരണം ചെയ്യുന്നത് കൂടാതെ ഒരു സ്പ്രിന്റിനിടെ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അയാളാണ് ശ്രദ്ധിക്കുന്നത് ഉപഭോക്താവിനെ പ്രതിനിധീകരിക്കുന്നയാളാണ് പ്രോഡക്ട് ഉടമ ഉപഭോക്താവിന്റെ വീക്ഷണം നേടുന്നതിന് അദ്ദേഹം ഉപഭോക്താവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ആവശ്യമുള്ള സവിശേഷതകൾ പ്രോഡക്ട് ഉടമ നിർവചിക്കുന്നു പുതിയ സവിശേഷതകൾ ഇല്ലാതാക്കിയതോ പരിഷ്ക്കരിച്ചതോ ആയ ചില സവിശേഷതകൾ വികസിപ്പിച്ചേക്കാം സവിശേഷതകളുടെ റിലീസ് തീയതി അദ്ദേഹം തീരുമാനിക്കുന്നു മാർക്കറ്റ് മൂല്യം അല്ലെങ്കിൽ ഉപഭോക്താവിന് മൂല്യം അനുസരിച്ച് സവിശേഷതകൾക്ക് മുൻഗണന നൽകുന്നു ആവശ്യമെങ്കിൽ ഓരോ ആവർത്തനത്തിലും ചിത്ര മുൻഗണന ക്രമീകരിക്കുക ഒടുവിൽ ഒരു സ്പ്രിന്റിന്റെ അവസാനം ജോലി ഫലങ്ങൾ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു ടീം നേരിടുന്ന എല്ലാ തടസ്സങ്ങളും പ്രോജക്ട് മാനേജർ നീക്കംചെയ്യുന്നു ടീം ഏകീകൃതമാണെന്നും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും ഉൽപാദനക്ഷമതയുള്ളതാണെന്നും അടുത്ത സഹകരണം ഉറപ്പാക്കുന്നുവെന്നും സ്ക്രം മാസ്റ്റർ പറയുന്നു അവിടെയുള്ള എല്ലാ കഥാപാത്രങ്ങളും നിർവഹണവും തമ്മിൽ കൂടുതൽ സഹകരണമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തമാണ് മാത്രമല്ല ടീമിനെ ബാഹ്യ ഇടപെടൽ ഉപഭോക്തൃ ടോപ്പ് മാനേജുമെന്റുമായുള്ള സമ്പർക്കമുഖങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ ടീം അംഗങ്ങളെ ബാഹ്യ ഇടപെടലിൽ നിന്ന് താരതമ്യേന തടയുന്നു ടീം അംഗങ്ങൾക്ക് സാധാരണയായി 5 മുതൽ 10 വരെ ആളുകൾക്ക് ക്രോസ് ഫംഗ്ഷണൽ വൈദഗ്ദ്ധ്യം ഉണ്ട് ഉദാഹരണത്തിന് ഒരു ടീം അംഗത്തിന് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാമിംഗ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ യുഐ ഡിസൈനിംഗ് മുതലായവ പരിശോധിച്ചേക്കാം സാധാരണയായി വ്യത്യസ്ത പ്രവർത്തനങ്ങളും അവയിൽ ഒന്നിലധികം ടീമുകൾ സ്വയം സംഘടിപ്പിക്കുന്നു അതാണ് ജോലിയുടെ ഏത് ഭാഗം ആരാണ് ചെയ്യേണ്ടതെന്നും അവർ എന്ത് പങ്കുവഹിക്കുമെന്നും അവർ തീരുമാനിക്കുകയും ഒരു സ്പ്രിന്റ് സമയത്ത് ടീമിന്റെ അംഗത്വം മാറ്റാൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്താം ചില അംഗങ്ങളെ മാറ്റിസ്ഥാപിച്ചേക്കാം പക്ഷേ പ്രക്രിയ സുസ്ഥിരമാകുന്നതിന് ഒരു സ്പ്രിന്റിനിടെ മാറ്റങ്ങളൊന്നും അനുവദിക്കില്ല ഈ യോഗങ്ങളിൽ 4 പ്രധാന യോഗങ്ങൾ ഇവിടെ നിർബന്ധമാക്കിയിരിക്കുന്നത് അതിലൊന്നാണ് സ്പ്രിന്റിന്റെ തുടക്കത്തിൽ നടക്കുന്ന സ്പ്രിന്റ് ആസൂത്രണ യോഗം സ്പ്രിന്റ് സമയത്ത് വികസിപ്പിച്ചെടുക്കേണ്ട സവിശേഷതകൾ പ്രോഡക്ട് ബാക്ക് ലോഗിൽ നിന്ന് ഇവിടെ സ്പ്രിന്റ് ബാക്ക്ലോഗ് രൂപപ്പെടുന്നു ദിവസേനയുള്ള സ്ക്രം യോഗം ഇത് സ്പ്രിന്റ് സമയത്ത് ഒരു ദിവസേനയുള്ള യോഗമാണ് ഓരോ ദിവസവും ഒരു സ്പ്രിന്റിനിടെ ടീം അംഗങ്ങൾ ഒരു ഹ്രസ്വ സമയത്തേക്ക് 15 മിനിറ്റ് കൂടിക്കാഴ്ച നടത്താം ഒരു സ്റ്റാൻഡ് അപ്പ് യോഗം അല്ലെങ്കിൽ യോഗം നീണ്ടുനിൽക്കും ഇത് വളരെ ഹ്രസ്വമായ യോഗമാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ചർച്ച ചെയ്യുന്നു എന്തെങ്കിലും തടസ്സവും മറ്റും അടുത്ത സ്പ്രിന്റിലും മറ്റും മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതിനാണ് സ്പ്രിന്റ് അവലോകന യോഗത്തിനു ശേഷം സ്പ്രിന്റ് പൂർവ്വകലാപ്രബല്യമുള്ള യോഗം നടത്തുന്നത് സ്പ്രിന്റിന്റെ അവസാനത്തിലാണ് സ്പ്രിന്റ് അവലോകന യോഗം ഏറ്റെടുക്കുന്നത് ഇവിടെ സ്പ്രിന്റ് സമയത്ത് നേടിയ പ്രവർത്തനങ്ങൾ ഉപഭോക്താവിനൊപ്പം ഉയർന്ന മാനേജുമെന്റിൽ അവലോകനം ചെയ്യും ഒരു സ്പ്രിന്റ് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇത് സ്പ്രിന്റ് ആസൂത്രണ യോഗം ഏറ്റെടുക്കുന്നു ഈ സ്പ്രിന്റ് ആസൂത്രണ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം സ്പ്രിന്റ് ബാക്ക്ലോഗ് നിർമ്മിക്കുക എന്നതാണ് ഇവിടെ പ്രോഡക്ട് ബാക്ക്ലോഗ് പരിശോധിക്കുകയും പ്രോഡക്ട് ബാക്ക്ലോഗ് സാധാരണയായി മുൻഗണനാക്രമത്തിൽ ക്രമീകരിക്കുകയും മുൻഗണനാ സവിശേഷതകൾ തിരഞ്ഞെടുക്കുകയും പ്രോഡക്ട് ഉടമയും ടീമിനൊപ്പം അവർ ഏറ്റെടുക്കേണ്ട ബാക്ക്ലോഗ് ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ചചെയ്യുകയും അത് ആവശ്യകത നിറവേറ്റുകയും ചെയ്യും ഉപഭോക്താവിന്റെ മാത്രമല്ല അത് റിലീസ് ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും സ്ക്രം മാസ്റ്റർ അഥവാ പ്രോജക്ട് മാനേജർ സ്പ്രിന്റ് ആസൂത്രണ വേളയിൽ പങ്കെടുക്കുന്നു കൂടാതെ ടീം തന്മയത്വ ലക്ഷ്യങ്ങളോട് യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു കാരണം ഇത് 1 മാസത്തെ ആവർത്തനമാണ് ഏകദേശം 1 മാസത്തിനുള്ളിൽ ജോലി ചെയ്യാനാകും ദിവസേനയുള്ള സ്ക്രം യോഗങ്ങൾ എല്ലാ ദിവസവും നടത്തുന്നു സാധാരണയായി ദിവസത്തിന്റെ തുടക്കത്തിൽ ഇത് വളരെ ഹ്രസ്വമായ യോഗമാണ് സാധാരണയായി 15 മിനിറ്റോ അതിൽ കൂടുതലോ ഇത് ഒരു സ്റ്റാൻഡ് അപ്പ് യോഗമാണ് കാരണം ടീം അംഗങ്ങൾ ഇരുന്നാൽ യോഗം നീണ്ടുനിന്നെകാം ഇത് ഒരു പ്രശ്ന പരിഹാര യോഗമല്ല പക്ഷേ യോഗം ലക്ഷ്യം ടീം അംഗങ്ങൾ പരസ്പരം അപ്ഡേറ്റ് ചെയ്യുന്നതിന് എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അവർ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ അടിസ്ഥാനപരമായി ഓരോ ടീം അംഗവും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ടീം ഇന്നലെ നേടിയ എന്താണ് ഇന്നത്തെ പദ്ധതി എന്താണ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഓരോ ടീം അംഗവും ഉത്തരം നൽകുന്ന 3 കാര്യങ്ങൾ മാത്രമാണ് ഇവ ദിവസേനയുള്ള സ്ക്രം ഒരു പ്രശ്ന പരിഹാര യോഗമല്ലെന്നു ഓർമ്മിക്കേണ്ടതാണ് ടീം അംഗങ്ങൾ ശരിക്കും പരിഹാരം ആവശ്യപ്പെടുന്നില്ല ഇത് ഒരു വിവര പങ്കിടൽ യോഗം മാത്രമാണ് മാത്രമല്ല സമയപട്ടികക് പിന്നിൽ ആരാണ് സമയപട്ടിക തുടങ്ങിയവയ്ക്ക് പിന്നിൽ എന്താണെന്നത് കുറ്റപ്പെടുത്തൽ കൂടിക്കാഴ്ചയല്ല ഇത് വിവരങ്ങൾ പങ്കിടൽ മാത്രമാണ് ഇവിടെ ഓരോ ടീം അംഗവും ഇന്നലെ നേടിയതെന്താണെന്നും ഇന്നത്തെ പ്ലാൻ എന്താണെന്നും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്നും അറിയിക്കുന്നു സ്ക്രം മാസ്റ്ററോ പ്രോജക്റ്റ് മാനേജരോ പങ്കെടുക്കുന്നു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ കൈവരിച്ച പുരോഗതി എന്താണെന്നും പ്രോജക്ട് മാനേജർക്ക് പ്രോജക്ടിന്റെ പുരോഗതി ട്രാക്കുചെയ്യാനുള്ള നല്ലൊരു മാർഗമാണിതെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു ഇത് സ്പ്രിന്റിന്റെ അവലോകന യോഗം സ്പ്രിന്റിന്റെ അവസാനം ഏറ്റെടുക്കുന്നു അടിസ്ഥാനപരമായി ഇവിടെ സ്പ്രിന്റ് സമയത്ത് നിർവഹിച്ച പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് പ്രോഡക്ട് ഉടമ ടീം അംഗം ഉപഭോക്തൃ പ്രതിനിധി എന്നിവരുടെ സാന്നിധ്യത്തിൽ അവലോകനം ചെയ്യപ്പെടും ഇത് വളരെ ഹ്രസ്വമായ ഒരു യോഗമാണ് മാത്രമല്ല ഇത് ഇപ്പോൾ പൂർത്തിയാക്കിയ സവിശേഷതകളുടെ പ്രകടനമാണ് സാധാരണഗതിയിൽ ഇവ സ്പ്രിന്റിനുശേഷം നേടാൻ കഴിയുന്നത് എന്താണെന്ന് അവർ കാണിക്കുന്ന കമ്പ്യൂട്ടറിലാണ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെയുള്ള സവിശേഷതകൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് തയ്യാറാക്കിയതും വിപുലമായതുമായ രേഖകൾ പോലെയല്ലാത്ത അനൌപചാരിക മാതൃകയാണ് അങ്ങനെയല്ല പൂർത്തിയാക്കിയ സവിശേഷതകൾ എങ്ങനെ അവതരിപ്പിക്കാമെന്നും ആ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നതെങ്ങനെയെന്നും അവർ ചിന്തിക്കുന്ന ടീം അംഗങ്ങൾക്കായി ഇത് 2 മണിക്കൂർ തയ്യാറെടുപ്പ് മാത്രമാണ് സ്ക്രമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാസൃഷ്ടിയാണ് പ്രോഡക്ട് ബാക്ക്ലോഗ് പ്രൊജക്റ്റിനായി ആവശ്യമുള്ള എല്ലാ ജോലികളുടെയും പട്ടികയാണ് പ്രോഡക്ട് ബാക്ക്ലോഗ് പ്രോഡക്ട് ബാക്ക്ലോഗ് ഇവിടെ 2 തരം ഇനങ്ങൾ ഉണ്ട് അതിലൊന്നാണ് ഉപയോക്താവിനെ തിരയാനും മാറ്റിസ്ഥാപിക്കാനും അനുവദിക്കുക ഡാറ്റാബേസിൽ ഇനം സംഭരിക്കുക അംഗങ്ങളുടെ രജിസ്ട്രേഷൻ നൽകുക തുടങ്ങിയ സ്റ്റോറി അധിഷ്ഠിത ഇനങ്ങൾ നിലവിലുള്ള രണ്ടാമത്തെ ഇനങ്ങളും ടാസ്ക് അധിഷ്ഠിത ഇനങ്ങളാണ് ടാസ്ക് അധിഷ്ഠിത ഇനങ്ങൾ ഒഴിവാക്കൽ കൈകാര്യം ചെയ്യൽ മെച്ചപ്പെടുത്തുന്നതിന് തുല്യമാണ് കാരണം ഇപ്പോൾ നടപ്പിലാക്കിയത് ഒഴിവാക്കൽ കൈകാര്യം ചെയ്യൽ പ്രവർത്തിക്കുന്നു എന്നതാണ് പക്ഷേ അത്ര നന്നായില്ല തുടർന്ന് പ്രോഡക്ട് ബാക്ക്ലോഗിലെ ഒരു ഇനം അവതരിപ്പിക്കപ്പെടും എന്നതാണ് ഒഴിവാക്കൽ കൈകാര്യം ചെയ്യൽ മെച്ചപ്പെടുത്തുന്നത് അതിനാൽ ഇവിടെയുള്ള ചില ഇനങ്ങൾ അടിസ്ഥാനപരമായി ഉപയോക്തൃ കഥകളോ ഉപയോക്തൃ ആവശ്യകതകളോ ആണ് മറ്റുള്ളവ ഉപഭോക്തൃ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി പ്രോഡക്ട് ഉടമ പട്ടികയ്ക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഏറ്റെടുക്കുന്നതിന് ചില പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ഇനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രോഡക്ട് ബാക്ക്ലോഗ് അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് പ്രോഡക്ട് ഉടമയാണ് സാധാരണയായി ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ രൂപത്തിൽ പരിപാലിക്കുകയും സാധാരണയായി സ്പ്രിന്റ് ആസൂത്രണ യോഗത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു സ്പ്രെഡ്ഷീറ്റിലെ ഒരു സാധാരണ പ്രോഡക്ട് ബാക്ക്ലോഗാണ് മുൻഗണന വളരെ ഉയർന്നതും ഉയർന്നതും ഇടത്തരവുമാണ് ഇവിടെ ഇവ ഇന നമ്പറുകളാണ് തുടർന്ന് നമ്മളുടെ ചില ഉപയോക്തൃ കഥകളും മറ്റുള്ളവയും ഏറ്റെടുക്കേണ്ട ചില പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നതിനുള്ള ഇനങ്ങളുടെ ഒരു ഉപസെറ്റാണ് സ്പ്രിന്റ് ബാക്ക്ലോഗ് സ്പ്രിന്റ് ആസൂത്രണ യോഗത്തിലാണ് ഇത് സൃഷ്ടിച്ചത് അടിസ്ഥാനപരമായി ഉൽപ്പന്ന ഉടമയും ടീം അംഗങ്ങളും അടുത്ത സ്പ്രിന്റിനായി ഏറ്റെടുക്കേണ്ട ഇനങ്ങൾ ഏതെന്ന് തീരുമാനിക്കുന്നു പക്ഷേ പിന്നീട് ഇത് ദിവസേന അപ്ഡേറ്റു ചെയ്യുന്നു കാരണം ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം അത് സ്പ്രിന്റ് ബാക്ക്ലോഗിൽ ചേർക്കുന്നു ഒരു സ്പ്രിന്റ് സമയത്ത് സ്പ്രിന്റ് ബാക്ക്ലോഗ് മാറുന്നു സ്പ്രിന്റ് ലക്ഷ്യം നേടുന്നതിന് ടീം അംഗത്തിന് പുതിയ ജോലികൾ ചേർക്കാൻ കഴിയും അവർക്ക് അനാവശ്യ ടാസ്ക്കുകൾ നീക്കംചെയ്യാനും കഴിയും പക്ഷേ ബാക്ക്ലോഗ് ടീം അപ്ഡേറ്റുചെയ്യുന്നു എന്നതാണ് കാര്യം സ്പ്രിന്റ് ആരംഭിച്ചുകഴിഞ്ഞാൽസ്പ്രിന്റ് ബാക്ക്ലോഗ് ടീം അപ്ഡേറ്റുചെയ്യുന്നു ഉൽപ്പന്ന ബാക്ക്ലോഗ് ഉൽപ്പന്ന ഉടമ അപ്ഡേറ്റുചെയ്യുന്നു ഒപ്പം വർക്ക് വ്യത്യസ്ത ഇനങ്ങൾക്കായുള്ള എസ്റ്റിമേറ്റുകളും ആവശ്യമുള്ളപ്പോഴെല്ലാം സ്പ്രിൻറ് ബാക്ക്ലോഗും അപ്ഡേറ്റുചെയ്യുന്നു ഇപ്പോൾ ബേൺ ഡൌൺ ചാർട്ടുകൾ നോക്കാം ഇത് ഇതുവരെ കൈവരിച്ച പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു ബേൺ ഡൌൺ ചാർട്ടുകളിൽ 3 പ്രധാന തരം ഉണ്ട് അതിലൊന്ന് സ്പ്രിന്റ് ബേൺ ഡൌൺ ചാർട്ട് ആണ് ഇത് ഒരു തീയതി വരെ എത്രത്തോളം പുരോഗതി കൈവരിച്ചുവെന്ന് സ്പ്രിന്റ് സമയത്ത് റിലീസ് ബേൺ ഡൌൺ ചാർട്ട് ഒരു പതിപ്പിൽ ഒന്നിലധികം സ്പ്രിന്റുകൾ അടങ്ങിയിരിക്കാം മാത്രമല്ല റിലീസിനായി ഈ പ്രവർത്തനം എത്രത്തോളം നേടുകയും ചെയ്തു ഒരു റിലീസ് ബേൺ ഡൌൺ ചാർട്ടിൽ ഇത് പ്രതിനിധീകരിക്കുന്നു പ്രൊഡക്റ്റ് ബേൺ ഡൌൺ ചാർട്ട് ഇതാണ് പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള മൊത്തത്തിലുള്ള പുരോഗതി ആദ്യം നമുക്ക് സ്പ്രിന്റ് ബേൺഡൌൺചാർട്ട് നോക്കാം ഇത് സ്പ്രിന്റ് സമയത്ത് നേടിയ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു സാധാരണഗതിയിൽ ദിവസങ്ങൾ പുരോഗമിക്കുമ്പോൾ അവശേഷിക്കുന്ന മണിക്കൂറുകളെ പ്രതിനിധീകരിക്കുന്നു സ്പ്രിന്റ് ആരംഭിക്കുമ്പോൾ എത്ര മണിക്കൂർ ജോലിയുടെ കണക്കാണ് നൽകുന്നത് തുടർന്ന് ദിവസങ്ങൾ പുരോഗമിക്കുമ്പോൾ നിരവധി പ്രവൃത്തികൾ കുറയുന്നു ജോലിയുടെ സങ്കീർണ്ണതയെക്കുറിച്ച് തെറ്റായ വിലയിരുത്തൽ ഉണ്ടാകാമെന്നതിനാൽ ഇത് കൂടുകയും ചെയ്യും സാധാരണ റിലീസ് ചെയ്യാനുള്ള സമയം ഇത് കാണിക്കുന്നു ദിവസങ്ങൾ 30 ദിവസമാണ് സ്പ്രിന്റിന്റെ അവസാനത്തിൽ അത് 0 ആയിരിക്കണം ഇത് ഒരു നേർരേഖയല്ല ദൈനംദിന നിരന്തരമായ പുരോഗതി കൈവരിക്കാനാവില്ല വിവിധ തടസ്സങ്ങളുണ്ട് കൂടാതെ എസ്റ്റിമേറ്റുകൾ സ്പ്രിന്റ് ആയി പരിഷ്കരിക്കുന്നു പുരോഗമിക്കുന്നു സ്പ്രിന്റ് ബേൺഡൌൺചാർട്ടുകളുടെ വലിയ കാഴ്ചയാണിത് പ്രാരംഭ എസ്റ്റിമേറ്റ് ശേഷിക്കുന്ന മൊത്തം മണിക്കൂറുകൾ ഓരോ ദിവസവും അപ്ഡേറ്റുചെയ്യുന്നു തുടർന്ന് പുരോഗതി കൈവരിക്കുമ്പോൾ ഇത് അപ്ഡേറ്റുചെയ്യുകയും ഒടുവിൽ സ്പ്രിന്റിന്റെ അവസാനത്തിൽ 0 ആകുകയും ചെയ്യും ഇതാണ് റിലീസ് ബേൺ ഡൌൺ ചാർട്ട് ഓരോ പതിപ്പിലും നിരവധി സ്പ്രിന്റുകൾ അടങ്ങിയിരിക്കാം ഒരു റിലീസ് സമയത്ത് നിരവധി സ്റ്റോറി പോയിന്റുകൾ നടപ്പിലാക്കുന്നു അടിസ്ഥാനപരമായി റിലീസിന് ആവശ്യമായ എല്ലാ സ്റ്റോറി പോയിന്റുകളും നടപ്പിലാക്കുന്നതിന് മുമ്പ് എത്രയെത്ര സ്പ്രിന്റുകൾ ആവശ്യമാണെന്ന് ഇത് പ്രതിനിധീകരിക്കുന്നു പ്രോഡക്ട് ബേൺഡൌൺചാർട്ട് മൊത്തത്തിലുള്ള ചിത്രം നൽകുന്നു എത്ര സ്പ്രിന്റുകൾ പൂർത്തിയാക്കി എത്ര എണ്ണം ആവശ്യമുണ്ട് ഇവിടെ 3 ഇനങ്ങൾ പ്രതിനിധീകരിക്കുന്നു ഇത് യഥാർത്ഥ പൊള്ളൽ യഥാർത്ഥ പുരോഗതി കണക്കാക്കിയ പുരോഗതിയും തുടർന്ന് ഓരോ സ്പ്രിന്റിനും പൂർത്തിയായ സ്റ്റോറി പോയിന്റുകളായ വേഗതയും നൽകുന്നു സാധാരണ സ്ക്രം ചെറിയ പദ്ധതികൾ 6 10 ആളുകൾക്ക് വേണ്ടിയാണ് എന്നാൽ പിന്നീട് അത് നൂറുകണക്കിന് ഉൾപ്പെടുന്ന വലിയ പദ്ധതികൾ വിചാരണ ചെയ്തു സ്ക്രം ഓഫ് സ്ക്രം അല്ലെങ്കിൽ മെറ്റാ സ്ക്രം എന്ന് വിളിക്കുന്നു ഇത് ഇവിടെ ചർച്ച ചെയ്യുകയില്ല എന്നാൽ ഒരു പ്രധാന കാര്യം നമ്മൾ നിരവധി വികസന പ്രക്രിയകൾ ചർച്ച ചെയ്തു എന്നതാണ് വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള നിരവധി പ്രക്രിയകൾ ഞങ്ങൾ ചർച്ച ചെയ്തു വർദ്ധനവ് പരിണാമം റാഡ് മോഡൽ നിരവധി തരം അജയ്ല് മാതൃകകൾ എന്നിവ ഞങ്ങൾ ചർച്ചചെയ്തു പക്ഷേ ഒരു പ്രോജക്റ്റ് നൽകിയാൽ ഉപയോഗിക്കേണ്ട വികസന ജീവിതചക്രം എന്താണെന്ന് പ്രോജക്ട് മാനേജർ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും ശരി പക്ഷേ ഇത് പ്രോജക്റ്റ് മാത്രം നിർവചിക്കുന്നില്ല ഉപയോഗിക്കേണ്ട ജീവിതചക്രം മാതൃക പ്രോഡക്ട് ത്തിന്റെ സവിശേഷതകൾ വികസന ടീമിന്റെ സവിശേഷതകൾ ഉപഭോക്താവിന്റെ സവിശേഷതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു പ്രോഡക്ട് വികസന ടീമിന്റെയും ഉപഭോക്താവിന്റെയും സവിശേഷതകളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി വികസന ജീവിതചക്രം തീരുമാനിക്കപ്പെടുന്നു പ്രോജക്റ്റിലെ അനിശ്ചിതത്വം വളരെ ഉയർന്നതാണെങ്കിൽ സാധാരണയായി പരിണാമ സമീപനത്തെ അനുകൂലിക്കുന്നു പ്രോജക്റ്റ് പുരോഗമിക്കുമ്പോൾ സവിശേഷതകൾ പൂർത്തീകരിക്കാൻ തിരിച്ചറിയുന്നു നന്നായി മനസിലാക്കിയ ആപ്ലിക്കേഷനുകൾക്ക് വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള മാതൃകകൾ അഭികാമ്യമാണ് കാരണം ഇത് ചെയ്യാനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗ്ഗമാണിത് കൂടാതെ ദീർഘകാല പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ശക്തമായ മാനേജ്മെന്റ് നിയന്ത്രണം മുഴുവൻ പ്രോജക്റ്റിനുമുള്ള പദ്ധതി പൂർത്തിയാക്കി എന്നാൽ ടീം അംഗങ്ങൾ പുതിയവരാണെങ്കിൽ അവർക്ക് പ്രോജക്റ്റുകളെക്കുറിച്ചും സമാന തരത്തിലുള്ള പ്രോജക്ടുകളെക്കുറിച്ചും കൂടുതൽ പരിചയമില്ല ചില ചെറിയ വർദ്ധനവുകൾ ആസൂത്രണം ചെയ്യുകയും പൂർത്തീകരിക്കുകയും അങ്ങനെ പ്രോജക്റ്റ് കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു വർദ്ധനവ് മാതൃകയാണ് നല്ലത് ഇതോടെ ഈ പ്രഭാഷണം പൂർത്തിയാകും തുടർന്ന് നമ്മൾ പദ്ധതിയുടെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയും തുടർന്ന് പദ്ധതിയുടെ സ്ചെഡ്യൂൾ തയ്യാറാകുകയും ചെയ്യും